ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ തുടരും ക്ലൌഡ് സുരക്ഷയുടെ ചില വശങ്ങളെക്കുറിച്ച് സംസാരിക്കും ഈ സുരക്ഷ എങ്ങനെ ഒരു പങ്കുവഹിക്കുന്നുവെന്നും അവയുടെ വ്യത്യസ്ത വശങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ പരിശോധിക്കും ഇത് പ്രാഥമികമായി SaaS ക്ളൌഡ്മായി സഹകരിക്കുന്ന ഒരു തരം ക്ളൌഡ് ആണ് സമീപഭാവിയിൽ ഇത്തരത്തിലുള്ള ക്ളൌഡ്കൾ പരസ്പരം ആശയവിനിമയം നടത്തും മറ്റൊരു തരത്തിൽ ഇത് ഉപഭോക്താവോ ക്ലൌഡിൽ അവരുടെ ആപ്ലിക്കേഷൻ ഉള്ള വ്യത്യസ്ത പങ്കാളികളോ മറ്റ് ക്ലൌഡിലെ മറ്റ് ആപ്ലിക്കേഷനുകളുമായോ ആശയവിനിമയം നടത്തും മറ്റൊരു അർത്ഥത്തിൽ ഇത് ഒരു കൊളാബറേറ്റീവ് വിദ്യാർത്ഥി ആയ നിർനോയ് ഘോഷിന്റെ ഒരു കൃതിയാണ് അദ്ദേഹത്തിന്റെ രചനകൾ വിവരിക്കും പക്ഷേ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശാലമായ വശങ്ങൾ നമ്മൾ പരിശോധിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗവേഷണം അല്ലെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന നിങ്ങളിൽ പലർക്കും ഇത് നല്ലതായിരിക്കും ഇത് കൊളാബറേറ്റിവ് SaaS ക്ലൌഡിലെ മറ്റൊരു പ്രത്യേകതയാണ് ഒരിക്കൽ ഞാൻ എന്റെ ഡാറ്റയും ആപ്ലിക്കേഷനും ഒരു ക്ലൌഡിൽ ലോഡുചെയ്യുകയോ ഔട്ട്സോഴ്സ് ചെയ്യുകയോ ചെയ്തുകഴിഞ്ഞാൽ ആ കാര്യങ്ങളിൽ നമ്മൾക്ക് കൂടുതൽ നിയന്ത്രണമില്ല അല്ലെങ്കിൽ നമ്മളുടെ നിയന്ത്രണം ദാതാവ് തീരുമാനിക്കുന്നതാണ് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതെന്തും അല്ലെങ്കിൽ നിയന്ത്രണത്തിനായി എന്റെ കൈവശമുള്ളതെന്തും പ്രാഥമികമായി തീരുമാനിക്കുന്നത് സേവന ദാതാവാണ് സുരക്ഷാ കാഴ്ചപ്പാടിൽ ഇത് നോക്കിയാൽ ഇത് മറ്റൊരു അർത്ഥത്തിലാണ് എന്റെ ഡാറ്റ എങ്ങനെ സുരക്ഷിതമാക്കേണ്ടതുണ്ട് എന്നതിന്റെ ഒരു തടസ്സമാണ് എന്താണ് ബാഹ്യ മറ്റ് ആപ്ലിക്കേഷനുകളിലേക്ക് ഇത് എത്രമാത്രം തുറന്നുകാട്ടപ്പെടുന്നത് കൂടാതെ മറ്റ് തരത്തിലുള്ള ഉപയോക്താക്കളും എല്ലാം ഇതിൽ ഉൾപ്പെടും അപര്യാപ്തമായ നയങ്ങളും നടപടികളും പോലുള്ള മറ്റ് പൊതുവായ ആശങ്കകളുണ്ട് നമ്മൾ സംസാരിക്കുന്നത് പോലെ ബന്ധപ്പെട്ടതും അപര്യാപ്തവുമായ സുരക്ഷാ നിയന്ത്രണം ഉണ്ട് ഉപയോക്താക്കൾ അവരുടെ ക്ലയന്റുകൾക്ക് സേവനം നൽകാൻ ക്ലൌഡ് സേവനങ്ങൾ ഉപയോഗിക്കുന്നു ഉപയോക്താക്കൾക്കും അവരുടെ ക്ലയന്റുകൾക്ക് സേവനം നൽകുന്നതിന് ക്ലൌഡ് സേവനങ്ങൾ ഉപയോഗിക്കാനും കഴിയും ആ ക്ലൌഡ് സേവനങ്ങളിൽ അപ്ലിക്കേഷനുകൾ പ്രവർത്തിപ്പിക്കുന്നത് വിശ്വാസപരമായ ബന്ധങ്ങൾ ശരിയായി സ്ഥാപിക്കേണ്ടതുണ്ട് ഈ സേവന ദാതാവിനെ ഞാൻ എത്രമാത്രം വിശ്വസിക്കുന്നു എന്ന നിബന്ധനയുണ്ട് ഇത് ഉപഭോക്താവിനും ദാതാവിനും പങ്കാളികൾക്കും പ്രയോജനകരമാകും ഉപഭോക്താവ് ദാതാവിനെ എങ്ങനെ വിശ്വസിക്കുന്നു എന്നത് മാത്രമല്ല ഞാൻ ഒരു ക്ലൌഡ് സേവന ദാതാവാണെങ്കിൽ ഞാൻ ആരാണെന്ന ചോദ്യമുണ്ട് ഒപ്പം എനിക്കായുള്ള ഉപഭോക്താക്കളോ സേവനങ്ങളുടെ ഉപഭോക്താവോ വിശ്വസനീയമായിരിക്കണം എന്നതും പ്രശ്നകാരിയായ ഒരു ഉപഭോക്താവുണ്ടാകരുത് അത് എല്ലായ്പ്പോഴും നല്ല ഒരു കാര്യമല്ല കാരണം ക്ലൌഡ് സേവന ദാതാവ് അവരുടെ ബിസിനസ്സ് സേവനങ്ങൾ വിൽക്കുന്നു അവ പ്രശ്നബാധകരമായിരിക്കില്ല എന്നിരുന്നാലും ഈ പ്രക്രിയയിൽ നിങ്ങൾക്ക് പ്രശ്നകാരികളായ ചില ഉപഭോക്താക്കളെ കാണാം അത് സാധാരണയായ സാഹചര്യമാണ് സേവന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ഡാറ്റയും തരങ്ങളും ആക്രമിക്കാനോ പരിശോധിക്കാനോ കഴിയും ഇത് ലഭ്യമായ ഒരു കാര്യവും നമ്മൾ കണ്ട വിവിധ ലേഖനങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടും ഉണ്ട് IaaS ന്റെ കാര്യത്തിൽ സുരക്ഷാ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഹൈപ്പർവൈസർ അവിടെയുണ്ട് ഒരു SaaS ന്റെ ഉത്തരവാദിത്തം ഇന്റർഫേസ് ആപ്ലിക്കേഷൻ വരെ സേവനങ്ങൾ ഉള്ളതാണ് ഈ സുരക്ഷ ദാതാവ് കൈകാര്യം ചെയ്യുന്നത് വിവിധതരം ക്ളൌഡ്കളിൽ നമുക്ക് വ്യത്യസ്ത തരം സുരക്ഷ ഉണ്ടെന്ന് കാണാം ഒരു SaaS ന്റെ കാര്യത്തിൽ ദാതാക്കളെ ആശ്രയിച്ചിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് എന്ത് പ്രോസസ്സിംഗ് സേവനമോ ഏതെങ്കിലും തരത്തിലുള്ള ടെക്സ്റ്റ് എഡിറ്റിംഗ് സേവനമോ എന്നപ്പോലെ ഞാൻ ആ API ഉപയോഗിക്കുന്നു ഒപ്പം മറ്റാരെങ്കിലും ആ API ഉപയോഗിക്കുന്നു വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന വ്യത്യസ്ത ഉദാഹരണങ്ങൾ എനിക്ക് ലഭിക്കാൻ കഴിയുന്ന അതേ ആപ്ലിക്കേഷൻ നിലയാണ് SaaS ക്ലൌഡ് ബേസ് കൊളാബറേഷൻ സമീപനങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ ഒന്നിലധികം ഉപയോക്താക്കളിലുടനീളം പങ്കിട്ട ഡാറ്റയുടെ സമഗ്രത കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തേക്കാം എന്നതാണ് പൊതുവായ ആശങ്ക ഒരു ഡാറ്റ ഉള്ളതിനാൽ അല്ലെങ്കിൽ ഒന്നിലധികം ഉപയോക്താക്കൾക്ക് അടിസ്ഥാന പ്ലാറ്റ്ഫോം പങ്കിടുന്നു ഒപ്പം വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒരു അനുയോജ്യമായ വെണ്ടർ അല്ലെങ്കിൽ ഒരു സേവന ദാതാവിനെ ഞാൻ എങ്ങനെ തിരഞ്ഞെടുക്കും എന്നത് ഒരു പ്രധാന വെല്ലുവിളിയാണ് അവിടെ ധാരാളം ദാതാക്കളുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ദാതാവിനെ തിരഞ്ഞെടുക്കും എന്റെ പിഎച്ച്ഡി വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഇതിൽ പ്രവർത്തിച്ച ഡോ നിർണയ് ഘോഷ് അദ്ദേഹത്തിന്റെ ജോലിയുടെ ഒരു ഭാഗം വിവരിക്കാൻ നമ്മൾ എടുക്കും മാത്രമല്ല ഈ പ്രത്യേക പ്രശ്നത്തിൽ നമ്മൾ വെല്ലുവിളികൾ കൂടുതൽ ഏറ്റെടുക്കുകയും ചെയ്യും അത്തരം തരം കാര്യങ്ങൾ നോക്കുന്നത് നന്നായിരിക്കും മൾട്ടി ഡൊമെയ്ൻ അവയ്ക്ക് ഫെഡറൽ ക്ളൌഡ്കളുണ്ടെങ്കിലും അവ ലൂസ് കപ്പിൾ സിസ്റ്റമാണ് വ്യത്യസ്ത ക്ളൌഡ്ങ്ങളിൽ ഒരേ ക്ളൌഡ്ലായിരിക്കാം അതിനാൽ അവ വളരെ ശക്തമായി ബന്ധിപ്പിച്ചിട്ടില്ല ക്ലൌഡ് പരിതസ്ഥിതിയിൽ ലൂസ് സഹകരണം സുരക്ഷിതമാക്കുന്നതിൽ വിവിധ മാറ്റങ്ങളുണ്ട് എന്നത് ഒരു പ്രധാന പ്രശ്നമാണ് മാത്രമല്ല കർശനമായി കപ്പിൾ ചെയ്ത സിസ്റ്റങ്ങൾക്കായി സുരക്ഷാ സംവിധാനങ്ങൾ നിർദ്ദേശിക്കുന്നു വളരെയധികം സുരക്ഷാ സംവിധാനങ്ങളില്ല നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ നിങ്ങൾ സുരക്ഷാ സംവിധാനം തിരയുമ്പോഴെല്ലാം അത് പ്രതിഭാസങ്ങളിലേക്ക് അയയ്ക്കുന്നു ആവശ്യകത കൈകോർത്തുപോകുന്നു ക്ലൌഡിലെ നിലവിലുള്ള പ്രാമാണീകരണ അംഗീകാര സംവിധാനങ്ങളിൽ ഇത് കൂടുതൽ കർശനമായി കൂട്ടിച്ചേർത്ത കാര്യ നിയന്ത്രണമായി മാറുന്നു ഇന്നത്തെ ക്ലൌഡിൽ നിങ്ങൾ കൈവശമുള്ള ഓരോ മെക്കാനിസങ്ങളുടെയും തരം രഹസ്യമായ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു നിയന്ത്രണമായിരിക്കാം എന്നതിന് മറ്റൊരു പ്രശ്നമുണ്ട് വളരെയധികം വെല്ലുവിളികൾ ഉണ്ട് അത് പ്രചോദനം നൽകുന്നു അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവയാണ് SaaS ക്ലൌഡ് ഡെലിവറി മോഡൽ നേരിട്ട് ലഭ്യമല്ല ഉപയോക്താവ് നൽകുന്നതെന്തും പരിശോധിക്കേണ്ടതുണ്ട് ക്ലൌഡ് സേവനങ്ങളുടെ ഉപയോഗത്തിൽ പ്രധാന ആശങ്ക ഇവയാണ് ക്ലൌഡിലെ സുരക്ഷാ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട് സമീപകാല മുന്നേറ്റങ്ങൾ കാരണം അതിവേഗം വളരുന്നതുപോലെ ക്ലൌഡ് മാർക്കറ്റ്പ്ലെയ്സ് എന്ന ആശയം വരുന്നു നമ്മൾക്ക് സാധാരണയായി ഒരു ക്ലൌഡ് മാർക്കറ്റ് സ്ഥലമുണ്ട് അവിടെ ഉപഭോക്താക്കളുടെ എണ്ണം ഒരു സാമ്പത്തിക മാതൃകയുണ്ട് ഞാൻ ഒരു ക്ലൌഡ് ഇക്കണോമിക്സിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത് നിങ്ങൾ മികച്ച സേവനങ്ങൾക്കായി പോകുന്നിടത്ത് സേവനങ്ങളുടെ വിലനിലവാരം മാത്രമല്ല മികച്ചത് SLA കൾ മികച്ച സുരക്ഷയാണ് ഏതൊക്കെ സേവന ദാതാവിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രധാന വെല്ലുവിളിയാണ് ഒന്നിലധികം സേവന ദാതാക്കളുടെ ലഭ്യത സേവനത്തിൽ പൊരുത്തക്കേടുണ്ട് കൂടാതെ സ്റ്റാൻഡേർഡ് ക്ലോസുകൾ ഇല്ലെന്ന് ഉറപ്പ് നൽകുന്നു ഒരു അനുയോജ്യമായ SaaS ക്ലൌഡ് ദാതാവിനെ തിരഞ്ഞെടുക്കുന്നു അത് ഒരു പ്രശ്നമാണ് തിരഞ്ഞെടുത്തതിന് ശേഷം മറ്റ് സുരക്ഷാ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കണം ഓൺലൈൻ സഹകരണങ്ങൾ വളരെ ജനപ്രിയമായിത്തീരുന്നതുപോലുള്ള മറ്റ് കാര്യങ്ങളുണ്ട് അനുയോജ്യമായ ഒരു ദാതാവിനെ ഞാൻ കണ്ടെത്തുന്ന നിരവധി സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് ഇന്നത്തെ സന്ദർഭത്തിന്റെ പ്രസക്തി നിങ്ങൾ ഏതെങ്കിലും ഇ മാർക്കറ്റ്പ്ലെയ്സ് ഉണ്ട് നിങ്ങൾ വാങ്ങുന്ന ഏത് തരത്തിലുള്ള കാര്യങ്ങളും ഓൺലൈൻ വാങ്ങൽ തിരഞ്ഞെടുപ്പ് മുതലായവ ഒപ്പം നിങ്ങളുടെ യാത്രാ ബുക്കിംഗ് കേന്ദ്രങ്ങൾ ഉൾപ്പടെ ബന്ധിപ്പിച്ചിരിക്കുന്ന വ്യത്യസ്ത കക്ഷികളുണ്ട് കൂടുതലും അവ ലൂസ് ആണ് ഉൽപ്പന്നങ്ങൾ നൽകുന്ന കക്ഷികളുണ്ട് മറ്റ് തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് പോലുള്ള ധനകാര്യ സേവനങ്ങൾ നൽകുന്ന കക്ഷികളുണ്ട് കൊറിയർ സേവനങ്ങളും കാര്യങ്ങളുടെ തരവും നൽകുന്നതും ഉണ്ട് തുടർന്ന് അവരെ ലൂസ് രീതിയിൽ ബന്ധിപ്പിക്കും അനുയോജ്യമായ SaaS ക്ലൌഡ് ദാതാവിനെ തിരഞ്ഞെടുക്കുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം ഒപ്പം അതിൽ ലൂസ് സഹകരണം സുരക്ഷിതമാക്കുക എന്നത് പരിതസ്ഥിതികളാണ് വ്യത്യസ്ത വശങ്ങൾ എന്തൊക്കെയാണ് ഒരു സാധാരണ സമീപനത്തിനായി എന്താണ് തിരയുന്നത് അതിനു മറ്റ് സമീപനങ്ങളില്ല എന്നതുപോലെയല്ല പക്ഷേ ഈ പ്രത്യേക പ്രശ്നത്തിലേക്ക് നമുക്ക് എന്ത് വഴിയാണ് പോകേണ്ടത് നമ്മളുടെ ലക്ഷ്യങ്ങളിലൊന്ന് നോക്കുകയാണെങ്കിൽ ഈ പ്രത്യേക സൃഷ്ടിയിൽ നമ്മൾ ഒരു ഫ്രെയിംവർക് വിൽക്കുന്നുവെന്ന് സൂചിപ്പിച്ചതുപോലെ ഒരു ഫ്രെയിംവർക് വികസിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് വ്യത്യസ്ത സിഎസ്പികൾ ഉണ്ടായിരിക്കാം പ്രത്യേകിച്ചും ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്ര അതോറിറ്റിയിൽ ചെയ്യാം ബിസിനസ്സ് ഔട്ട്സോഴ്സിംഗിനായി ഒരു SaaS ദാതാവിനെ തിരഞ്ഞെടുക്കാൻ ഉപഭോക്താവ് അഭ്യർത്ഥിക്കുന്നു കൂടാതെ സിഎസ്പി പ്രത്യേക കെ അല്ലെങ്കിൽ സിഎസ്പി ഇതിന് അനുയോജ്യമായ അടിസ്ഥാനമാണെന്ന് ശുപാർശ ചെയ്യുന്നു പ്രധാനമായും സുരക്ഷാ വശങ്ങൾ ശരിയായി നോക്കേണ്ടതുണ്ട് അതാണ് കാര്യത്തിന്റെ ലക്ഷ്യം പ്രാദേശിക റിസോഴ്സ്സ് പ്രവേശിക്കുന്നതിനുള്ള അഭ്യർത്ഥന തിരഞ്ഞെടുക്കാവുന്നതിന് ശേഷം അവിടെ ഉണ്ടായിരിക്കാം ഒരിക്കൽ ഞാൻ പ്രത്യേക സിഎസ്പികൾ അപകടസാധ്യതയും സുരക്ഷാ അനിശ്ചിതത്വവും കുറവാണ് ആക്സസ് റിസ്കും പോലെ വ്യത്യസ്ത ഡൊമെയ്നിൽ എനിക്ക് വ്യത്യസ്ത ഉപഭോക്താവ് ഉണ്ട് അവർ മറ്റെവിടെയെങ്കിലും സഹകരിക്കുന്നു ഒരു ഫസ്സി ഇന്റർഫേസ് സിസ്റ്റത്തിൽ അടിസ്ഥാനമാക്കി അഭ്യർത്ഥനയെ അടിസ്ഥാനമാക്കി പ്രശസ്തിയും പ്രാദേശിക വസ്തുക്കളുടെ സുരക്ഷാ നിലയും അടിസ്ഥാനമാക്കി സഹകരണ അവകാശത്തിനായി അംഗീകാരമുള്ള ഒരു സജ്ജീകരണ അനുമതി ഞാൻ നൽകുന്നു ഒരു പ്രത്യേക ഓഫീസ് ആക്സസ്സുചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ ഒരുതരം സാമ്യത നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നിട്ട് എന്റെ പ്രശസ്തിയുടെയോ ക്രെഡൻഷ്യലിന്റെയോ യഥാർത്ഥ ലാബുകൾ ഉള്ളിടത്തോ പ്രവേശിക്കാൻ കഴിയില്ല ഇത് നിങ്ങളുടെ അധികാര നിലവാരത്തെയും നിങ്ങളുടെ ആവശ്യകതയെയും ബാങ്കിലേക്ക് പോകുന്നത് പോലുള്ള കാര്യങ്ങളിൽ ഡൊമെയ്ൻ അഭ്യർത്ഥിക്കുന്നതിനെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഞാൻ ചെക്കോ ചില രേഖകളോ നിക്ഷേപിക്കാൻ പോകുന്നുവെങ്കിൽ മാനേജരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും തലത്തിലേക്കുള്ള പ്രവേശനക്ഷമതയിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നു അത് എന്റെ ആവശ്യകതയെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ ഈ ആക്സസ് റോൾ എടുക്കുക

ഒരു സഹകരണ ക്ലൌഡിന്റെ കാര്യത്തിൽ ഉപഭോക്താവിനെ അടിസ്ഥാനമാക്കി ഒരുതരം അഭ്യർത്ഥനയുമായി വരുമ്പോൾ അത് ഒബ്ജക്റ്റുകളിലെ മറ്റൊരു തരം ആക്സസ്സ് നയങ്ങളാണ് ഇതിന് ഒരു കൂട്ടം കാര്യങ്ങൾ അനുവദിച്ചു പ്രത്യേക ഉപഭോക്താവ് ആവശ്യപ്പെട്ടതെല്ലാം അനുവദനീയമായിരിക്കില്ല മറിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അനുവദിക്കാവുന്ന ഒരു ഉപസെറ്റ് പ്രശസ്തിയാണ് ഐഡിആർഎം രൂപപ്പെടുത്താൻ മറ്റ് ലക്ഷ്യങ്ങൾക്ക് കഴിയും അതായത് കുറഞ്ഞ ആക്സസ് പ്രത്യേകാവകാശം അതാണ് വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഒരു പ്രശ്നം ഓർഗനൈസേഷൻ ബിയിൽ നിന്ന് എന്തെങ്കിലും ആക്സസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിൽ ഞാൻ വഹിക്കുന്ന പങ്ക് മാപ്പ് ചെയ്യേണ്ടതുണ്ട് മറ്റ് ഓർഗനൈസേഷനുകളിൽ തുല്യമായ പങ്ക് ഓർഗനൈസേഷനിൽ നിന്നുള്ള ഒരു ധനകാര്യ ഓർഗനൈസേഷനായി ഞാൻ പ്രവേശിക്കുന്നത് പോലെ 1 2 ചിലത് ഓർഗനൈസേഷൻ 2 ലെ ചില ഡാറ്റയായി പറയുന്നു ഇവിടെ ഞാൻ ലെവൽ 1 ന്റെ മാനേജർ പ്രശ്നമാണ് ഇത് ഇതിനകം തന്നെ ഉള്ള ഒരു പ്രശ്നമാണ് അത് കാണേണ്ട സമയത്ത് ഈ തരത്തിലുള്ള സഹകരണ ക്ലൌഡിലും ഉണ്ട് ഡൊമെയ്ൻ സഹകരണം അഭ്യർത്ഥിക്കുന്നത് ഒരു കൂട്ടം അനുമതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും ഇവിടെ പറയാൻ നമ്മൾ ശ്രമിക്കുന്നു കൂടാതെ IDRM പ്രശ്നം പരിഹരിക്കുന്നത് ഹ്യൂറിസ്റ്റിക് അടിസ്ഥാനമാക്കി ഇത് ഒരു വിഷമകരമായ പ്രശ്നമാണെന്ന് നമ്മൾ കാണും നമ്മൾക്ക് ചില ഗ്രീഡി ഉണ്ടായിരിക്കുകയും കുറഞ്ഞ അധിക അനുമതികളുള്ള ഒരു സെറ്റ് അപ്പ് റോളുകൾ മാപ്പുചെയ്യാൻ ശ്രമിക്കുകയും വേണം എനിക്ക് ആ അനുമതി നൽകേണ്ടതുണ്ടെന്ന് പറയാൻ ശ്രമിക്കുന്ന ഏറ്റവും കുറഞ്ഞ അധിക അനുമതി കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ അനുമതി എനിക്ക് ആവശ്യമാണ് എനിക്ക് ഒരു ഡോക്യുമെന്റ് ഒരുപക്ഷേ ശരിയായി വായിക്കുന്നു ഇത് അധിക അനുമതിയില്ലാത്തതിനാൽ കാര്യത്തിന് അധിക അനുമതികൾ നൽകുന്നില്ല മറ്റൊരു ലക്ഷ്യം വിതരണം ചെയ്യപ്പെട്ട സുരക്ഷിതമായ സഹകരണ ഫ്രെയിംവർക് ആയിരിക്കാം ഇത് അധിക വൈരുദ്ധ്യങ്ങൾ ചലനാത്മകമായി കണ്ടെത്തുന്നതിനും നീക്കംചെയ്യുന്നതിനും പ്രാദേശിക വിവരങ്ങൾ മാത്രം ഉപയോഗിക്കുന്നു പ്രാദേശിക വിവരങ്ങൾ മാത്രമുള്ള ഒരു ചലനാത്മക ഫ്രെയിംവർക് എനിക്ക് എങ്ങനെ നേടാനാകും ക്ലൌഡ് പ്രൊവൈഡറുകളിൽ മറ്റൊരു ഡാറ്റ ആക്സസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്ലൌഡ് ഉദാഹരണത്തിലേക്ക് ഓടുന്ന ഒരു ഓർഗനൈസേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നിന്ന് അധികമായി ഓർഗനൈസുചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ സിഎസ്പി അല്ലെങ്കിൽ കാര്യങ്ങളുടെ അധിക എഴുത്ത് ഇതിന്റെ എല്ലാ വിവരങ്ങളും എനിക്ക് ഉണ്ടാകണമെന്നില്ല എന്റെ പ്രാദേശിക വിഭവങ്ങളോ പ്രാദേശിക വിവരങ്ങളോ പരിശോധിച്ച് പരമാവധി സുരക്ഷ നേടാൻ ഞാൻ ശ്രമിക്കേണ്ടതുണ്ട് മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് ലൂസ് കപ്പിൾ കാര്യങ്ങൾ ഉള്ളപ്പോൾ എല്ലാ യോഗ്യതാപത്രങ്ങളും സഹകരിച്ച് വഹിക്കാൻ കഴിയില്ല അവിടെ ഒരു മെക്കാനിസം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു വഴി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഞാൻ അത് എങ്ങനെ എന്റെ രീതിയിലേക്ക് മാപ്പ് ചെയ്യുന്നുവെന്ന സമീപനമുണ്ടായിരിക്കണം ഇവിടെയും നമ്മൾ ഒരു കൂട്ടം റോളുകളുമായി ഒരു ഡൊമെയ്ൻ സഹകരണ അഭ്യർത്ഥന പരീക്ഷിച്ചു ഉപയോക്താക്കളുടെ സെഷനുകളിൽ ഒന്നിലധികം റോളുകൾ സജീവമാക്കുന്നു ഒരു സൈക്കിൾ ജനറേഷൻ ഉണ്ടെങ്കിൽ ഒരു ആക്സസ് വൈരുദ്ധ്യമുണ്ടാകാം അതിനർത്ഥം ഒരു പ്രത്യേക ഓർഗനൈസേഷനിലെ പ്രത്യേക പങ്ക് കാരണം എനിക്ക് ആക്സസ് ചെയ്യാൻ കഴിയാത്ത ഒരു വഴിയിൽ ഇത് ഒരു സൈക്കിളിലേക്ക് പോകുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാം ആക്സസ് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാം അതിനാൽ എനിക്ക് പൊരുത്തക്കേട് കണ്ടെത്തലും പൊരുത്തക്കേട് നീക്കംചെയ്യലും ആവശ്യമാണ് തുടർന്ന് എനിക്ക് ഒരു വൈരുദ്ധ്യരഹിത സഹകരണ അഭ്യർത്ഥന ശരിയായിരിക്കണം ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നാം പരിശോധിക്കേണ്ടതുണ്ട് സഹകരണത്തിനായി വിശ്വസനീയവും കഴിവുള്ളതുമായ SaaS ക്ലൌഡ് ദാതാവിന്റെ തിരഞ്ഞെടുപ്പാണ് ഒന്ന് റിപ്പോർട്ടുചെയ്ത മിക്ക കൃതികളിലും വെല്ലുവിളികൾ ഉണ്ട് നിരവധി വെല്ലുവിളികൾ ഉണ്ട് നമ്മൾ 3 ഘടകങ്ങൾ വിശ്വാസം പ്രശസ്തി കഴിവ് എന്നിവ കാണുന്നു അവ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു പക്ഷേ വീണ്ടും അവർക്ക് ചില പ്രത്യേക സവിഷേതകളുണ്ട് ഇത് എത്രമാത്രം വിശ്വസനീയമാണ് അത് ചെയ്യാൻ യോഗ്യനാണോ ഒരു പ്രത്യേക കാര്യങ്ങളോ സുരക്ഷാ തരത്തിലുള്ള കാര്യങ്ങളോ ചെയ്യുന്നതിന്റെ പ്രശസ്തി എന്താണ് നിങ്ങൾ SLA കളിലേക്ക് നോക്കിയാൽ വീണ്ടും വെല്ലുവിളികൾ നേരിടേണ്ടിവരും കാരണം ഭൂരിഭാഗം ക്ലൌഡ് ദാതാക്കളും സേവനങ്ങളുടെ ലഭ്യത ഉറപ്പുനൽകിയതുപോലെ SLA ഇത് മൂടിവയ്ക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരെങ്കിലും വാദിച്ചേക്കാം ഉപയോക്താവ് ഗ്യാരൻറിയുടെ ലഭ്യത മാത്രമല്ല പ്രകടനവുമായി ബന്ധപ്പെട്ട മറ്റ് ഉറപ്പുകളും ആവശ്യപ്പെടുന്നു ഒരു ഉപഭോക്താവെന്ന നിലയിൽ ലഭ്യതയെക്കുറിച്ച് ഞാൻ നോക്കുക മാത്രമല്ല ഇത്തരത്തിലുള്ള സമയപരിധിക്കുള്ളിലോ നഷ്ടപരിഹാരം വരെയോ ഇത് ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു ഇക്കാലത്തെ ക്ളൌഡ് എസ്എൽഎ കുറയ്ക്കുന്നതിനുള്ള മാർഗ്ഗം ഉണ്ടായിരിക്കണം വ്യത്യസ്ത ഉപഭോക്താക്കളുണ്ടോ എന്ന് ഒരു ഫ്രെയിംവർക് നോക്കാൻ നമ്മൾ വീണ്ടും ശ്രമിക്കുന്നു ഇന്ററാക്ഷൻ റേറ്റിംഗും ടെമ്പറൽ മെട്രിക്സും ഉണ്ട് അത് എസ്എൽഎയുടെ മാനേജർമാരെ നയിക്കുന്നു സേവന ദാതാവിനൊപ്പം ഒരു എസ്എൽഎ ഉണ്ട് ഇവ എസ്എൽഎയുടെ കോംപീറ്റൻസ് എന്നിവ കണ്ടെത്താനും കഴിയും വ്യത്യസ്ത സേവന ദാതാക്കളുമായി ഇവ തമ്മിലുള്ള ആശയവിനിമയം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു ഇവയുടെ വ്യത്യസ്ത പ്രവാഹങ്ങളുണ്ട് സെൽസിഎസ്പി ഫ്രെയിംവർക് അത് റിസ്ക് എസ്റ്റിമേറ്റാണ് കൂടാതെ റിലേഷണൽ റിസ്ക് ഡയറക്ട് ഇന്ററാക്ഷൻ ട്രസ്റ്റ് എസ്റ്റിമേറ്റും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തേത് അംഗീകാരത്തിനായി അജ്ഞാത ഉപയോക്താക്കളിൽ നിന്നുള്ള ആക്സസ് അഭ്യർത്ഥന ശുപാർശ ചെയ്യുന്നു റിസ്ക് അടിസ്ഥാനമാക്കിയുള്ള ആക്സസ് നിയന്ത്രണം ശരിയാണ് മറ്റ് തരത്തിലുള്ള ആക്സസ് നിയന്ത്രണത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും റോൾ ബേസ്ഡ് ആക്സസ് കണ്ട്രോൾ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഒരു വിഷയത്തിന് ശരിയായ അനുമതിയില്ലെങ്കിലും അവയിലേക്ക് പ്രവേശനം നൽകുന്നു എനിക്ക് പൂർണ്ണമായി കൂട്ടിച്ചേർത്ത അനുമതികളുടെ ഒരു കൂട്ടം ഉണ്ടായിരിക്കേണ്ടതില്ല ശരിയായ രീതിയിൽ ഉൾപ്പെടുന്ന കുറച്ച് റിസ്ക് ഉപയോഗിച്ച് എനിക്ക് ആക്സസ് നൽകാൻ കഴിയുമോ എന്ന് അത് ബൈനറി സ്റ്റോപ്പ് ഓൺ അല്ലെങ്കിൽ ഓഫ് ഒരു സുരക്ഷാ അനിശ്ചിതത്വത്തിന് കാരണമാകുന്നു ബൈനറി എംഎൽഎസുമായി പ്രവർത്തന ആവശ്യങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി നിലവിലുള്ള റിസ്ക് ബേസ് ആക്സസ് കൺട്രോൾ സിസ്റ്റത്തിലെ അംഗീകാരം നിർണ്ണയിക്കാം പ്രവർത്തന ആവശ്യകത കണക്കാക്കുന്നില്ല വിവര പങ്കിടൽ അവകാശം പരമാവധി വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള നിരവധി അഭ്യർത്ഥനകൾ പ്രവർത്തന റിസ്ക് കാരണം നിരസിക്കപ്പെടുന്നു ഇത് കുറയ്ക്കുന്നതിന് വിവര പങ്കിടൽ പരമാവധി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് തെളിയിക്കുന്ന നിരവധി അഭ്യർത്ഥനകൾ നമ്മൾ നിരസിക്കുന്നു അതിലൂടെ എന്റെ മൊത്തത്തിലുള്ള അപകടസാധ്യത കുറയുന്നു മറ്റൊരു അർത്ഥത്തിൽ അപകടസാധ്യത കുറയ്ക്കുന്നതിന് നമ്മൾ സഹകരണം ശരിയായി കുറയ്ക്കാൻ ശ്രമിക്കുന്നു ഒരു ഫയൽ അവ്യക്തമായ അനുമാന സംവിധാനം കാണുന്നതിന് ഒരു വിതരണ ഫ്രെയിം വർക്ക് ഉണ്ട് ഇത് ഒരു വിതരണം ചെയ്ത റാക്കിംഗ് കണ്ടെത്താൻ ശ്രമിക്കുന്നു അടുത്തത് പ്രാദേശിക റോളുകളിലേക്ക് അനുമതി അനുവദിക്കുന്നതിനുള്ള മാപ്പിംഗ് ആണ് ഇന്റർ ഡൊമെയ്ൻ റോൾ മാപ്പിംഗ് കാര്യം IDRM നിങ്ങൾക്കുള്ളത് നമ്മൾ അഭ്യർത്ഥിച്ച അനുമതി സെറ്റിനെ കോമ്പസ് ചെയ്യുന്ന ചുരുങ്ങിയ റോളുകൾ കണ്ടെത്തുന്നു ഗ്രീഡി തിരയൽ അടിസ്ഥാനമാക്കിയുള്ള ഹ്യൂറിസ്റ്റിക്സ് സബ് ഒപ്റ്റിമൽ സമയ പരിഹാരങ്ങളൊന്നും ലഭ്യമല്ല അവ നേരിടുന്ന വെല്ലുവിളികൾ ഒന്നിലധികം ചുരുങ്ങിയ റോൾ ശരിയായി സജ്ജീകരിച്ചിരിക്കാം നിലവിലുള്ള ഏറ്റവും ചുരുങ്ങിയ ഒന്നിലധികം മിനിമം റോൾ സെറ്റുകൾ ഉണ്ടായിരിക്കാമെന്നതിനാൽ എല്ലാ അനുമതികളിലേക്കും കൃത്യമായി മാപ്പ് ചെയ്യുന്ന ഒരു റോളുകളും ഇവിടെ നിലവിലില്ല വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളോ വെല്ലുവിളികളോ ഉണ്ട് IDRM കളുടെ 2 വേരിയന്റുകൾ IDRM സുരക്ഷയും IDRM ലഭ്യതയുമാണ് ഒരു നോവൽ ഹ്യൂറിസ്റ്റിക് എണ്ണം കുറയ്ക്കുകയും ചെയ്യും ഇവിടെയും നിങ്ങൾ വിതരണം ചെയ്ത റോൾ മാപ്പിംഗ് ഫ്രെയിംവർക് ഉണ്ട് നമ്മൾക്ക് പ്രാദേശിക ഡൊമെയ്നുകൾ റോൾ അനുമതി സെറ്റിലേക്ക് വിന്യസിക്കുന്നു അനുമതികളും ഹ്യൂറിസ്റ്റിക് അടിസ്ഥാനമാക്കിയുള്ള ആശയ ലഭ്യത പ്രശ്ന പരിഹാരവും നമ്മൾ രൂപീകരിക്കാനോ നിർദ്ദേശിക്കാനോ ശ്രമിക്കുന്നതും ചുരുങ്ങിയ സജ്ജീകരണ റോളായ ഒരു കൂട്ടം റോൾ സൂക്ഷിക്കുന്നതും കാണാം അവസാനമായി ഡൈനാമിക് ഡിറ്റക്ഷൻ ആക്സസ് വൈരുദ്ധ്യത്തിന്റെയും നീക്കംചെയ്യലിന്റെ മറ്റൊരു വശമുണ്ട് നമ്മൾക്ക് ഒന്നിലധികം സഹകരണങ്ങൾ ഉള്ളപ്പോഴെല്ലാം ഇത് മറ്റൊരു പ്രധാന പ്രശ്നമാണ് നിങ്ങൾക്ക് ഒരു സൈക്ലിക് ആക്സസ് സൈക്കിൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില പ്രത്യേക വസ്തുക്കൾ ആക്സസ്സുചെയ്യുന്നതിലേക്ക് ഇത് നയിച്ചേക്കാം സാധാരണ ഗതിയിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ഈ കാഴ്ചക്കാരനെപ്പോലെ ഈ സൈക്ലിക് ഇൻഹെറിറ്റൻസ് കോൺഫ്ലിക്റ് നോക്കുകയാണെങ്കിൽ ഈ പ്രത്യേക കാര്യങ്ങൾ എഴുതാനോ എഡിറ്റർ അനുമതിയോ അനുവദിക്കില്ല എന്നാൽ എനിക്ക് ശരിയായ അനുമതിയുള്ള മറ്റൊരു ഡൊമെയ്നിലേക്ക് ആക്സസ് ഉണ്ടായിരിക്കാൻ കഴിയും അവയിൽ നിന്ന് അനുവദനീയമായ മറ്റൊരു എഡിറ്റിംഗിലേക്ക് റീഡിങ് അനുമതിയുണ്ട് മറ്റൊരു അർത്ഥത്തിൽ എനിക്ക് ശരിയാക്കാൻ കഴിയില്ല ഈ പ്രത്യേക വിഷയത്തിലേക്ക് ഈ പ്രത്യേക ഒബ്ജക്റ്റിലേക്ക് എഴുതാൻ കഴിയില്ല പക്ഷേ എനിക്ക് ഇതിന്റെ ഒരു സൈക്ലിക് മാർഗമുണ്ട് ഇൻഹെറിറ്റൻസ് സൈക്ലിക് വഴി ഇതിലേക്ക് എഴുതുക മറ്റൊരു അർത്ഥത്തിൽ ഞാൻ ചെയ്യേണ്ട ഒരു വൈരുദ്ധ്യപരമായ സാഹചര്യമാണ് ഞാൻ ചെയ്തത് സോഡ് കോൺസ്റ്റന്റ്ന്റെ ഉള്ളതുപോലെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് പരിശോധിക്കാൻ കഴിയില്ല ഞാൻ ഡ്രാഫ്റ്റ് ഇഷ്യു ചെയ്യുകയാണെങ്കിൽ എനിക്ക് വെരിഫിക്കേഷൻ ശരിയായി ചെയ്യാൻ കഴിയില്ല ഒരു പ്രത്യേക കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഇത് കടമകളുടെ ഒരു വേർതിരിക്കലാണ് സോഡ് സ്ഥിരാങ്കം എന്ന് നമ്മൾ അറിയപ്പെടുന്നവയെ അവിടെ നിന്ന് ഒഴിവാക്കണം അതാണ് ഏതെങ്കിലും സുരക്ഷാ വിവര സുരക്ഷാ സംവിധാനങ്ങളിൽ ഉള്ളത് ഇവിടെ സോഡ് കോൺസ്റ്റന്റിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ടാകാം ഇവിടെ എനിക്ക് ഒരു അവകാശമുണ്ട് ഈ എഡിറ്ററിൽ എഴുതുന്നതിലൂടെ എനിക്ക് മറ്റൊരു ചാനൽ നേടാനാകുംഒപ്പം ഇവിടെ ഒരു ആശയവിനിമയം ഉണ്ട് അടിസ്ഥാനപരമായി ഒരു സോഡ് കോൺസ്റ്റന്റ് ആണെങ്കിലും മറ്റൊരു ചാനൽ വഴി ഞാൻ ആശയവിനിമയം നടത്തുന്നു കാര്യങ്ങളുടെ ലംഘനമുണ്ടാകാം ഒന്നിലധികം ആശയവിനിമയ പങ്കാളികൾ ഉണ്ടാകുമ്പോഴെല്ലാം ഇത് സംഭവിക്കുന്നു പ്രത്യേകിച്ചും അവ ലൂസ് കപ്പിൾഡ് ആയിരിക്കുമ്പോൾ അതിനർത്ഥം മറ്റ് കാര്യങ്ങളുടെ മുഴുവൻ സുരക്ഷാ സാഹചര്യങ്ങളും അല്ലെങ്കിൽ മറ്റ് പാർട്ടിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളും അറിയില്ല എന്നാണ് ഇവിടെയും നമ്മൾ വിതരണം ചെയ്ത ഒരു പ്രത്യേക സുരക്ഷാ സഹകരണ ഫ്രെയിം വർക്കിനായി ശ്രമിക്കുന്നു അത് ഒരു കൂട്ടം റോളുകൾ എടുക്കുകയും അഭ്യർത്ഥന പ്രോസസ്സിംഗ് മൊഡ്യൂളുകളെ സുരക്ഷിതമല്ലാത്ത റോൾ സൈക്കിളോ നേടാനാകും നമ്മൾ മനസിലാക്കുന്നതുപോലെ അത് ഒരു പങ്ക് കണ്ടെത്തൽ ആണെന്ന് കരുതുന്നു അവിടെ ഒരു കോൺഫ്ലിക്റ് ഉണ്ടെങ്കിൽ അവ സോഡ് ലംഘനത്തിന്റെ ഇൻഹെറിറ്റൻസ് കോൺഫ്ലിക്റ് ഭാഗികമായി കണ്ടെത്തേണ്ടതുണ്ട് ഇത് എന്താണെന്നും ഇപ്പോൾ കണ്ടെത്തേണ്ടതുണ്ട് ഒരിക്കൽ കണ്ടെത്തിയ ആ കോൺഫ്ലിക്റ്റ്കൾ നീക്കംചെയ്യേണ്ടതുണ്ടെന്ന് ഒന്ന് 2 വരാം കേസുകൾ കൃത്യമായി പൊരുത്തപ്പെടുന്ന റോൾ സെറ്റ് നിലവിലുള്ള ബാക് ഹൈബ്രിഡ് ശ്രേണി അല്ലെങ്കിൽ കൃത്യമായി റോൾ സെറ്റ് നിലവിലില്ല എനിക്ക് കാര്യങ്ങളിൽ ഒരു വെർച്വൽ റോൾ ചെയ്യാൻ കഴിയും എനിക്ക് ഒരു ഡമ്മി റോൾ സൃഷ്ടിക്കാനും അത് നോക്കാനും കഴിയും നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന റോളുകൾക്കായി സൈക്ലിക് ഇൻഹെറിറ്റൻസ് കോൺഫ്ലിക്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് കോൺഫ്ലിക്റ് നീക്കംചെയ്യലിനുശേഷം ഇതിനുപകരം നമ്മൾ ഒരു സഹകരണപരമായ റോൾ സൃഷ്ടിക്കുന്നു ഇവിടെ കാണുക അടിസ്ഥാനപരമായി ഇത് ഈ എഡിറ്ററിൽ അവസാനിക്കുന്നതിനുള്ള ഒരു ചക്രമായിരുന്നു അതേസമയം കൃത്യമായി പൊരുത്തപ്പെടാത്ത റോളിനായി ഇൻഹെറിറ്റൻസ് കോൺഫ്ലിക്റ് നീക്കംചെയ്യൽ ഉണ്ട് അത് കൃത്യമായി പൊരുത്തപ്പെടുന്നില്ല നമ്മൾ മറ്റൊരു സബ് റോൾ ചെയ്യുന്നു ഇപ്പോൾ ഈ വ്യൂവറിന് ഈ പ്രത്യേക എഡിറ്ററിലേക്ക് പോകാൻ ഒരു വഴിയുമില്ല ഞാൻ പോകുന്നില്ല ഒരു പൊരുത്തക്കേടും ഇല്ല അതുപോലെ പൊരുത്തക്കേടുകൾ നീക്കം ചെയ്യുന്നതിനും നിയന്ത്രണം നീക്കംചെയ്യാനുള്ള ഒരു കാര്യം ഇവിടെയുണ്ട് ഈ എഡിറ്റർ ഇവിടെ അവകാശം നേടുന്നതും ഈ എഡിറ്റർക്ക് ശരിയായി കാണാനാകുന്നതുമായ ഈ മുൻ സാഹചര്യമാണ് ഇതിലേക്ക് ആക്സസ് ഉള്ളത് ഒടുവിൽ ഇത് ഈ എഡിറ്ററിലേക്ക് പോയി അവിടെ സോട് എടുക്കുന്നു സോട് ലംഘിക്കുന്ന ഒരു സൈക്കിളിന് സാധ്യതയുണ്ട് ഇവിടെയും കൃത്യമായ പൊരുത്തമില്ലെങ്കിൽ നമ്മൾ ഒരു സഹകരണ റോൾ സൃഷ്ടിച്ചു ഇത് എഡിറ്റർ 2 ന്റെ റോൾ സഹകരിക്കുന്നു എഡിറ്റർ 2 സി അത് അവിടെ അവസാനിക്കുന്നു എഡിറ്റർ ഒന്നിനും എഡിറ്റർ 2 നും ഇടയിൽ ഒരു അക്രമവും ഇല്ല ശരിയാണ് അതിനർത്ഥം നമ്മൾ അങ്ങനെ നോക്കാൻ ശ്രമിക്കുകയാണ് സുരക്ഷാ ലംഘനങ്ങളില്ലാതെ കാര്യങ്ങൾക്കിടയിൽ ആരോഗ്യകരമായ സഹകരണമുള്ള ഒരു രംഗം നമ്മൾ രൂപപ്പെടുത്തിയേക്കാം സാസ് ക്ളൌഡ് എങ്ങനെ സുരക്ഷിതമായി സഹകരിക്കാമെന്ന് നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ സമീപനമാണിത് തീർച്ചയായും ഇത് വളരെ ഹ്രസ്വമായ ഒരു അവലോകനമാണ് പക്ഷേ ഇത് മതിയായതാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗവേഷണം താൽപ്പര്യമുള്ളവരെ ഇത് സഹായിക്കും അടിസ്ഥാനസൌകര്യങ്ങളുടെ ആവശ്യകത വളരെ കുറവാണെന്ന് കാണുക എന്നിരുന്നാലും നിങ്ങൾക്ക് അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ശരിയായി പ്രവർത്തിക്കാൻ കഴിയും ഒന്ന് വിശ്വസനീയവും കഴിവുള്ളതുമായ ക്ലൌഡ് ദാതാവിനെ തിരഞ്ഞെടുക്കുന്നതും തിരഞ്ഞെടുക്കലിന് ശേഷം അംഗീകാരത്തിനായി അജ്ഞാത ഉപയോക്താക്കളിൽ നിന്ന് ശുപാർശ ചെയ്യുന്ന ആക്സസ് അഭ്യർത്ഥന ഉണ്ട് പ്രാദേശിക റോളുകളിലേക്ക് അംഗീകൃത അനുമതി മാപ്പുചെയ്യുകയും ആക്സസ്സ് നിയന്ത്രണ വൈരുദ്ധ്യങ്ങൾ നീക്കംചെയ്യുന്നത് ഡൈനാമിക് ഡിറ്റക്ഷൻ കണ്ടെത്തുകയും ചെയ്യുക സൈക്ലിക് ഇൻഹെറിറ്റൻസ് കോൺഫ്ലിക്റ് പോലെ അല്ലെങ്കിൽ കോൺഫ്ലിക്റ് ഉണ്ടാകാം ഇന്ന് നമ്മൾ ചർച്ചചെയ്യുന്നത് സുരക്ഷയുടെ വളരെ തന്ത്രപരമായ ഒരു പ്രശ്നത്തിലേക്ക് നോക്കുക എന്നതാണ് അവിടെ SaaS ക്ലൌഡിനെ ഒരു ലൂസ് രീതിയിൽ സഹകരിക്കുന്നു സാധാരണ സുരക്ഷാ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് അവ എങ്ങനെ പരിഹരിക്കാമെന്നതാണ് മറ്റ് സമീപനങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനാകും ഒപ്പം മറ്റ് സമീപനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനും കഴിയും എന്നാൽ ഇത് നോക്കാനുള്ള ഒരു സാധാരണ മാർഗമാണ് ഇത് വളരെയധികം ഭാഗികമായ ഒരു പ്രശ്നമാണ് മാത്രമല്ല ഇന്നത്തെ ക്ലൌഡ് രംഗങ്ങൾ സഹകരിക്കുന്ന ക്ലൌഡ് രംഗത്തിന് ഇത് വളരെ ശരിയാണ്